നാം പി മോസ് ട്രാൻസിസ്റ്ററിൻറെ മോഡൽ കണ്ടിരുന്നു ഇത് എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെ മോഡലിന് സമാനമാണെന്ന് കണ്ടിരുന്നു പക്ഷേ കറൻറ് വോൾട്ടേജ് എന്നിവ വിപരീത പൊളാരിറ്റിയിൽ ആണെന്ന് മാത്രം ഇനി പി മോസ് ട്രാൻസിസ്റ്ററിൻറെ സ്മാൾ സിഗ്നൽ പിക്ചർ നോക്കാം വീണ്ടും ഒന്ന് ചുരുക്കിപ്പറഞ്ഞാൽ പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ലാർജ് സിഗ്നൽ ക്യാരക്ടറിസ്റ്റിക്സ് VSG VSD എന്നിവയുടെ ടേംസിൽ വിശദീകരിച്ചിരിക്കുന്നു ഡ്രയിൻ കറൻറ് ഈ രണ്ട് വോൾട്ടേജസിൻറെ ഫംഗ്ഷൻ ആയി എഴുതിയിരിക്കുന്നു ഞാൻ ഇവിടെ സാച്ചുറേഷൻ റീജിയൻ ഇക്വേഷൻ മാത്രം എഴുതാം µp cox2 W L2 ഇതാണ് നാം പരിഗണിക്കുന്ന മോഡൽ എൻ മോസ് ട്രാൻസിസ്റ്റർ പോലെ ചാനൽ ലെങ്ത് മോഡുലേഷൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയണിൽ ഡ്രയിൻ കറൻറ് VSD യുടെ മേൽ ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം ഇത് ഒരു അധികമായുള്ള ഫാക്ടർ 1 λ VSD വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിൻറെ ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നില്ല ഇത് എൻ മോസ് ട്രാൻസിസ്റ്ററിലേതിനു സമാനമായിരിക്കും തീർച്ചയായും ഇത് സാച്ചുറേഷൻ റീജിയണിൽ മാത്രമാണ് ഇനി സ്മാൾ ഇൻക്രിമെൻറ്സ് അല്ലെങ്കിൽ സ്മാൾ സിഗ്നൽ മോഡലിനായി മോസ് ട്രാൻസിസ്റ്ററിൻറെ ഇൻക്രിമെൻറൽ മോഡൽ എങ്ങനെയായിരിക്കും ഈ സോഴ്സ് ഗേറ്റ് വോൾട്ടേജിൽ ലോവർ കേസ് V SG അതായത് vSG യിലും സോഴ്സ് ഡ്രയിൻ വോൾട്ടേജിൽ ലോവർ കേസ് V SD അതായത് vSD യിലും എന്തെങ്കിലും ഇൻക്രിമെൻറ്സ് ഉണ്ടായാൽ ഡ്രയിൻ കറൻറിലും ഒരു നിശ്ചിത കറൻറ് ഇൻക്രിമെൻറ് iD ഉണ്ടാകും ഇൻക്രിമെൻറൽ മോഡൽ അല്ലെങ്കിൽ സ്മാൾ സിഗ്നൽ മോഡൽ ലോവർ കേസ് ID V SG V SD എന്നീ ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വിശദീകരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഒരു പൊതുവായുള്ള നോൺ ലീനിയാരിറ്റിക്ക് കറൻറ് I2 രണ്ട് വോൾട്ടേജസ് V1 V2 എന്നിവയുടെ ഫംഗ്ഷൻ ആയാൽ I2 i2 ഇൻക്രിമെൻറൽ തീർച്ചയായും V1 v1 V1 ലെ ഇൻക്രിമെൻറ് V2 v2 V2 ലെ ഇൻക്രിമെൻറ് എന്നിവയുടെ ഫംഗ്ഷൻ ആയിരിക്കും ഇനി ഈ ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് i2 എന്നത് ഓപ്പറേറ്റിംഗ് പോയൻറിൽ അപ്പർ കേസ് I2 വിൻറെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു V1 ടൈംസ് ഇൻക്രിമെൻറൽ V1 പ്ലസ് ഓപ്പറേറ്റിംഗ് പോയൻറിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു V2 ടൈംസ് ഇൻക്രിമെൻറ് V2 ഇതേ കാര്യം ഇവിടെയും നിലനിൽക്കുന്നു ഇത് എന്താണ് തരുന്നത് എന്ന് നോക്കാം ഓപ്പറേറ്റിംഗ് പോയൻറ് ക്വാണ്ടിറ്റിസ് VSG0 VSD0 ID എന്നിവ ഉണ്ടെന്നു കരുതുക ഇൻക്രിമെൻറൽ ക്വാണ്ടിറ്റിസ് ലോവർ കേസ് V SG ലോവർ കേസ് V SD ലോവർ കേസ് I D ഉണ്ടെന്നു കരുതുക ഇനി ഇൻക്രിമെൻറ് മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇക്വിവാലൻറ് സർക്യൂട്ട്സ് നിർമ്മിക്കണമെന്ന് കരുതുക ഇതാണ് സോഴ്സ് ഇതാണ് ഗേറ്റ് ഇതാണ് ഡ്രയിൻ അതുപോലെ സോഴ്സ് ഗേറ്റ് ഡ്രയിൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നു പി മോസ് ട്രാൻസിസ്റ്ററിലും ഗേറ്റ് കറൻറ് I G പൂജ്യം ആണ് ഇൻക്രിമെൻറൽ പിക്ചറിൽ ഗേറ്റ് ടെർമിനൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും ഇനി ഈ ഇൻക്രിമെൻറൽ കറൻറ് ലോവർ കേസ് I D സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു ഇതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇൻക്രിമെൻറൽ കറൻറ് ഇതെന്തിനാണ് തുല്യമാകുന്നത് ഓപ്പറേറ്റിംഗ് പോയൻറിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ID വിത്ത് റെസ്പെക്റ്റ് ടു VSG ടൈംസ് ഇൻക്രിമെൻറ് V SG പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ID വിത്ത് റെസ്പെക്റ്റ് ടു VSD ടൈംസ് ഇൻക്രിമെൻറ് V SD അതിനാൽ നമുക്കിവിടെ VSG VSD എന്നിവയുണ്ട് ഇനി ഈ ക്വാണ്ടിറ്റിസ് ഓരോന്നായി എടുക്കാം ഇവിടെ നമുക്ക് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ID വിത്ത് റെസ്പെക്റ്റ് ടു VSG ഉണ്ട് ഇത് ഞാൻ സാച്ചുറേഷൻ റീജിയണിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷേ എൻ മോസ് പോലെ ഇത് ട്രയോഡ് റീജിയണിലും ചെയ്യാം

പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു VSG എന്നത് µpCox W L 1 λ VSD gm എന്നതിൻറെ പൊതുവായുള്ള എക്സ്പ്രഷൻ പലപ്പോഴും ഈ ഭാഗം മാത്രം നാം അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം λ ചെറുതാണ് ഇതു തന്നെയാണ് നാം എൻ മോസിൻറെ കാര്യത്തിലും ചെയ്തത് മിക്കവാറും എല്ലാ ഓപ്പറേറ്റിംഗ് പോയൻറ് കാൽക്കുലേഷനിലും λ നാം അവഗണിക്കുകയാണ് ചെയ്യാറ് ഇതാണ് മോസ് ട്രാൻസിസ്റ്ററിൻറെ gm VGS എന്നതിന് പകരം VSG ഉണ്ട് എന്നല്ലാതെ എക്സ്പ്രഷൻ ഒന്നുതന്നെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം പി മോസ് ട്രാൻസിസ്റ്ററിലെ പൊളാരിറ്റിസ് വിപരീതമായാണ് ഉള്ളത് ഇനി പി മോസ് എൻ മോസ് ട്രാൻസിസ്റ്റർ രണ്ടും ഉണ്ടെങ്കിൽ gmp അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ച് ഇതിനെ വേർതിരിക്കാവുന്നതാണ് ഇവിടെ gm ആണുള്ളത് ഇത് പറയുന്നത് iD എന്നത് gmvSG ആയിരിക്കും എന്നാണ് തീർച്ചയായും gm ഓപ്പറേറ്റിംഗ് പോയിൻറിൽ ആണ് കണക്കാക്കുന്നത് ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന VSG യുടെ വാല്യൂ അവിടെ ഉപയോഗിക്കുന്ന VSD യും ഓപ്പറേറ്റിംഗ് പോയിൻറിൽ ആയിരിക്കും ഈ ഭാഗം വീണ്ടും ആവർത്തിക്കുന്നു ഇത് ഇവിടെ കോപ്പി ചെയ്യട്ടെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു VSD എന്നത് µnCox2 W L2 λ ID0 λ ആയിരിക്കും ID0 ഓപ്പറേറ്റിംഗ് പോയിൻറ് കറൻറ് ഇത് ഏകദേശം λ ID0 ആയിരിക്കും ഈ എക്സ്പ്രഷൻ ആണ് മിക്കവാറും മോസ് ട്രാൻസിസ്റ്ററിൻറെ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് gds കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഈ എക്സ്പ്രഷൻ ചില കാര്യങ്ങൾ ഒഴികെ എൻ മോസ് ട്രാൻസിസ്റ്ററിലേതു പോലെ തന്നെയാണ് vGS vDS എന്നിവയ്ക്കു പകരം vSG vSD എന്നാണുള്ളത് iD എന്നത് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു ഇത് ഈ vSG യെ ആശ്രയിച്ചിരിക്കുന്നു ഈ ടേം ഒരു കറണ്ട് സോഴ്സിനെ സൂചിപ്പിക്കുന്നു ഇത് ഓപ്പറേറ്റിങ് പോയിൻറിൽ കണക്കാക്കിയിരിക്കുന്നത് gm ടൈംസ് vSG എന്നാണ് ഈ ടേം സൂചിപ്പിക്കാൻ iD സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു ഇത് സോഴ്സ് ഡ്രയിൻ എന്നിവയ്ക്കിടയിലെ വോൾട്ടേജിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് ഓപ്പറേറ്റിങ് പോയിൻറിൽ കാൽക്കുലേറ്റ് ചെയ്ത കണ്ടക്ടൻസ് gds ആണ് എൻ മോസ് ട്രാൻസിസ്റ്റർ പോലെ ഇത് പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ഇൻക്രിമെൻറൽ പിക്ചർ ആണ് പക്ഷേ പൊളാരിറ്റിസ് വിപരീതമാണ് പക്ഷേ ഇതിന് നാം താഴെ പറഞ്ഞിരിക്കുന്ന മാറ്റങ്ങൾ വരുത്തും ഞാൻ ഇത് കോപ്പി ചെയ്യട്ടെ ഇനി എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെ കാര്യത്തിൽ മോഡൽ vGS vDS എന്നിവയുടെ ടേംസിൽ ആയിരുന്നു ചിത്രം ഇതുപോലെ ഇരിക്കും ഇതാണ് സോഴ്സ് ഇതാണ് ഗേറ്റ് ഇതാണ് ഡ്രെയിൻ ഇത് gds gm ടൈംസ് vGS അതേ സമയം ഇതാണ് പി മോസ് ട്രാൻസിസ്റ്ററിൻറെ മോഡൽ ഇത് vSG vSD എന്നിവയുടെ ടേംസിൽ ആണ് എഴുതിയിരിക്കുന്നത് ഇൻക്രിമെൻറൽ കറൻറ് സോഴ്സ് ഡ്രെയിൻ മുതൽ സോഴ്സ് വരെ എന്നതിനുപകരം സോഴ്സ് മുതൽ ഡ്രെയിൻ വരെയാണ് പോയിൻറ് ചെയ്യുന്നത് ഇനി ഇതും vGS ൻറെ ടേംസിൽ ആണ് കാണിക്കുന്നത് എന്ന് കരുതുക ഇത് ചെയ്യാൻ സാധിക്കും കാരണം vSG vGS vSD vDS ഇത് ചെയ്താൽ എനിക്ക് എന്താണ് ലഭിക്കുന്നത് ഞാൻ വീണ്ടും ഇവിടെ സോഴ്സ് ഗേറ്റ് ഡ്രെയിൻ എന്നിവ എഴുതുകയാണ് ഇനി vSG എന്നതിനുപകരം vGS എന്നതിനെ ഞാൻ വേരിയബിൾ ആയി ഉപയോഗിക്കുന്നു ഞാൻ ചെയ്യേണ്ടത് ഈ കറണ്ട് സോഴ്സിനെ gm vSG എന്ന് തിരിച്ചറിയുകയാണ് ഈ കറണ്ട് സോഴ്സ് gm vSG തീർച്ചയായും gm vGS ആണ് കാരണം vGS vSG ആണ് ഞാൻ vDS കൂടി ഉപയോഗിക്കും കണ്ടക്ടൻസിനെ സംബന്ധിച്ചിടത്തോളം ചിത്രം അതുതന്നെയാണ് ഡ്രെയിൻ സോഴ്സ് എന്നിവയ്ക്ക് ഇടയിലാണ് കണ്ടക്ടൻസ് തീർച്ചയായും ഇത് vSD അല്ലെങ്കിൽ vDS ആണോ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചല്ല കാരണം vSD തെരഞ്ഞെടുത്താൽ നിങ്ങൾ vSD gds എന്നു പറയും ഇത് ഈ ദിശയിൽ ഒഴുകും നേരെമറിച്ച് vDS വേരിയബിൾ ആയി തെരഞ്ഞെടുത്താൽ ഇത് വിപരീതമായ പൊളാരിറ്റിയിൽ ആയിരിക്കും vDS gds എന്നത് അതേ ദിശയിൽ ഒഴുകും നമുക്ക് കാണാൻ കഴിയും താഴേക്ക് പോകുന്ന vSD gds മുകളിലേക്ക് ഒഴുകുന്ന vds gds നു സമാനമാണ് അതിനാൽ ഇവിടെ മാറ്റമൊന്നുമില്ല ഈ കറൻറ് സോഴ്സിൽ സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ആണ് ഒഴുകുന്നത് ഇതിൻറെ വാല്യൂ മൈനസ് gm vGS ആണ് കറൻറ് സോഴ്സിൻറെ ദിശ വിപരീതമാക്കുന്നത് വഴി മൈനസ് ചിഹ്നം ഇല്ലാതാക്കാൻ കഴിയും ഇതിനെ ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുക്കാൻ എനിക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇതിൻറെ വാല്യൂ ഓപ്പറേറ്റിംഗ് പോയൻറിൽ gm ടൈംസ് vGS ആണ് ഞാൻ ഇതൊക്കെ എന്തിനാണ് ചെയ്തത് ഇത് ചെയ്താൽ പി മോസ് ട്രാൻസിസ്റ്ററിൻറെയും എൻ മോസ് ട്രാൻസിസ്റ്ററിൻറെയും ഇൻക്രിമെൻറൽ പിക്ചർ ഒന്നു തന്നെയാണെന്ന് കാണാൻ കഴിയും ഇവിടത്തെ പോലെ തന്നെ ഇവിടെയും ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഉണ്ട് ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് പോകുന്ന ഇൻക്രിമെൻറൽ കറൻറ് സോഴ്സ് ഇവിടത്തെതുപോലെ തന്നെയാണ് ഇതിൻറെ വാല്യൂ തീർച്ചയായും gm vGS ഇതു തന്നെയാണ് ഡ്രയിൻ സോഴ്സ് എന്നിവയ്ക്കിടയിൽ കണ്ടക്ടൻസ് ഉണ്ട് അതിനാൽ ഇൻക്രിമെൻറലി എല്ലാം vGS എന്നിവയുടെ ടേംസിൽ ആവിഷ്കരിച്ചാൽ എൻ മോസ് പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ചിത്രം ഒന്നുതന്നെ ആണ് അതിനാൽ പി മോസ് ട്രാൻസിസ്റ്ററിനും ചിത്രം വരയ്ക്കാം ഇത് ആരംഭിച്ചത് vSG vSD എന്നീ വേരിയബിൾസിൽ നിന്നുമാണ് ഇവയാണ് പി മോസ് ട്രാൻസിസ്റ്റർ വിവരിക്കാൻ യഥാർത്ഥത്തിൽ ഉപയോഗിച്ച വേരിയബിൾസ് ഇവയെ ഞാൻ vGS vDS എന്നിങ്ങനെ ആക്കി മാറ്റുന്നു ഇതോടുകൂടി പി മോസ് എൻ മോസ് എന്നിവയുടെ ഇൻക്രിമെൻറൽ പിക്ചർ ഒന്നു തന്നെയാണെന്ന് കാണാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു ആനുകൂല്യം ആണ് കാരണം ഏതൊരു സർക്യൂട്ടിൻറെയും ഫംഗ്ഷൻ സിന്തസൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് സ്മാൾ സിഗ്നൽ ഡൊമൈനിൽ ആണ് ചെയ്യുന്നത് അതായത് നാം കൺട്രോൾ സോഴ്സസ് റിയലൈസ് ചെയ്യുമ്പോഴും മറ്റും നമ്മൾ ഇത് ആദ്യം ഇൻക്രിമെൻറൽ ഡൊമൈനിൽ അല്ലെങ്കിൽ സ്മാൾ സിഗ്നൽ ഡൊമൈനിൽ ആണ് ചെയ്തത് അതിനുശേഷം ഇതിലേക്ക് ഓപ്പറേറ്റിംഗ് പോയൻറ് വ്യവസ്ഥ ഉൾപ്പെടുത്തി ഇനി എൻ മോസ് പി മോസ് എന്നിവയുടെ സ്മാൾ സിഗ്നൽ പിക്ചർ ഒരു പോലെ തന്നെയാണെങ്കിൽ എൻ മോസിന് ഉപയോഗിച്ചത് പി മോസിനും ഉപയോഗിക്കാം നാം ഇൻക്രിമെൻറൽ പിക്ചറിൽ ഡിറൈവ് ചെയ്തതെല്ലാം നാല് കൺട്രോൾ സോഴ്സസിലും കോമൺ സോഴ്സ് ആംപ്ലിഫയറിലും അതുപോലെതന്നെ ഉപയോഗിക്കാം കാരണം പി മോസിൻറെ ഇൻക്രിമെൻറൽ പിക്ചർ എപ്പോഴും vGS vDS എന്നിവയുടെ ടേംസിൽ ആണ് വിവരിക്കുന്നത് അതേസമയം വലിയ സിഗ്നലിന് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയൻറ് പിക്ചറിന് VSD VSG ആണ് ഉപയോഗിക്കുന്നത് ഇതാണ് എൻ മോസ് ട്രാൻസിസ്റ്റർ പി മോസ് ട്രാൻസിസ്റ്ററിൻറെ ഒപ്പം ഉപയോഗിക്കാനായി നാം ചെയ്ത ഒരു കാര്യം കൂടാതെ ഒന്നിലധികം ട്രാൻസിസ്റ്റർസ് ഉള്ള സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യം സർക്യൂട്ട് ഫംഗ്ഷനാലിറ്റി സ്മാൾ സിഗ്നൽ ഡൊമൈനിൽ സിന്തസൈസ് ചെയ്തു നോക്കുക പി മോസ് ട്രാൻസിസ്റ്റർ ആണോ എൻ മോസ് ട്രാൻസിസ്റ്റർ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ആലോചിക്കേണ്ട കാര്യമില്ല അതിനാൽ ഒന്നിലധികം ട്രാൻസിസ്റ്റർ ആയാലും ഒരു ട്രാൻസിസ്റ്റർ ആയാലും ആദ്യം സിന്തസൈസ് ചെയ്തു നോക്കിയതിനുശേഷം പി മോസ് ട്രാൻസിസ്റ്റർ ആണോ എൻ മോസ് ട്രാൻസിസ്റ്റർ ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക ഇത് എന്തെങ്കിലും ക്രൈറ്റീരിയൻറെ അടിസ്ഥാനത്തിൽ ആകാം ഉപയോഗിക്കാനുള്ള സൌകര്യമോ ട്രാൻസിസ്റ്ററിൻറെ പ്രകടനമോ അങ്ങനെ എന്തെങ്കിലും അതിനാൽ vGS vDS എന്നിവ ഉപയോഗിക്കുന്ന മോസ് ട്രാൻസിസ്റ്റർ മോഡൽ ഉപയോഗിച്ച് ഇൻക്രിമെൻറൽ ഡൊമൈനിൽ ഫംഗ്ഷനാലിറ്റി മുഴുവൻ സിന്തസൈസ് ചെയ്യുക അതിനാൽ പി മോസ് ആണോ എൻ മോസ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് പിന്നീട് തീരുമാനിക്കാം ഈ മോഡൽ രണ്ടിലും തുല്യമായി പ്രയോഗിക്കാവുന്നതാണ് പ്രധാന ആശയം എന്തെന്നാൽ പി മോസിൻറെയും എൻ മോസിൻറെയും ഇൻക്രിമെൻറൽ സ്മാൾ സിഗ്നൽ മോഡൽ ഒന്നുതന്നെയാണ് പൊതുവേ സാധ്യമാകുമ്പോൾ ഒക്കെ ഇത് ഇങ്ങനെയാണ് വരയ്ക്കുക vGS gm vGS ഡ്രയിൻ സോഴ്സ് എന്നിവയ്ക്ക് ഇടയിൽ കണ്ടക്ടൻസ് gm ഇനി പി മോസിൻറെയും എൻ മോസിൻറെയും ഇൻക്രിമെൻറൽ മോഡൽ എങ്ങനെ ഒരു പോലെ വന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലാർജ് സിഗ്നൽ പിക്ചറിലേക്ക് തിരിച്ചു പോകാം ഇത് എൻ മോസിനു വേണ്ടിയുള്ളതാണ് ഇത് VGS VDS എന്നിവയുടെ ടേംസിൽ ആണ് വിവരിച്ചിരിക്കുന്നത് കറൻറ് ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്നു നേരെമറിച്ച് പി മോസിൽ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്നു ഇത് VSG VSD എന്നിവയുടെ ടേംസിൽ ആണ് വിവരിച്ചിരിക്കുന്നത് VGS ΔVGS വോൾട്ടേജിൽ ഒരു ഇൻക്രിമെൻറ് എടുത്തുകൊണ്ട് ഇത് കാണിക്കാം VGS ൽ പോസിറ്റീവ് ഇൻക്രിമെൻറ് ഉണ്ടെന്നു കരുതുക ഇതിനർത്ഥം ID വർദ്ധിക്കുന്നു എന്നാണ് അതിനാൽ ഒരു പോസിറ്റീവ് ഇൻക്രിമെൻറ് ΔID ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഒഴുകുന്നു ഇവിടെ വോൾട്ടേജ് VSG ഉണ്ട് ΔVGS പോസിറ്റീവ് ഇൻക്രിമെൻറ് ഉണ്ടെന്നു കരുതുക ഇത് തീർച്ചയായും അർത്ഥമാക്കുന്നത് ഡെൽറ്റ നെഗറ്റീവ് ഇൻക്രിമെൻറ് ΔVSG അതിനാൽ ഇവിടെ VSG ΔVSG എന്നാകും ΔVSG യുടെ വാല്യൂ കുറഞ്ഞാൽ സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ഒഴുകുന്ന കറണ്ട് കുറയുന്നു ΔID യെ ഈ ദിശയിൽ ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഉള്ള ഇൻക്രിമെൻറ് ആയി കൂടി ചിന്തിക്കാൻ സാധിക്കും ഇവിടെ ΔID പോസിറ്റീവ് ആയിരിക്കും അതുപോലെ VGS ലെ Δ പോസിറ്റീവ് ഇൻക്രിമെൻറ് VSG ലെ Δ നെഗറ്റീവ് ഇൻക്രിമെൻറ് എന്നതിന് തുല്യമാണ് ഇത് ഡ്രയിൻ കറൻറ് കുറയാൻ കാരണമാകും പക്ഷേ ഈ ഡ്രെയിൻ കറൻറ് സോഴ്സിൽ നിന്നും ഡ്രയിനിലേക്ക് ആണ് ഒഴുകുന്നത് അതുകൊണ്ട് ഇതിനെ ഡ്രയിനിൽ നിന്നും സോഴ്സിലേക്ക് ഉള്ള പോസിറ്റീവ് ഇൻക്രിമെൻറ് ആയി കാണാം അതിനാൽ ഇൻക്രിമെൻറൽ പിക്ചർസ് പി മോസ് എൻ മോസ് എന്നിവയ്ക്ക് ഒരുപോലെയാണ്